VLSI ഫിസിക്കൽ ഡിസൈനിനെക്കുറിച്ചുള്ള ഈ 12 ആഴ്ച ദൈർഘ്യമുള്ള കോഴ്സിന്റെ അവസാനത്തിൽ നമ്മൾ എത്തി കഴിഞ്ഞ 12 ആഴ്ചകളിൽ നമ്മൾ ധാരാളം പ്രശ്നങ്ങളും VLSI ഫിസിക്കൽ ഡിസൈനിലെ നിരവധി വശങ്ങളും അവിടെ അഭിമുഖീകരിക്കുന്ന ചില വെല്ലുവിളികളും കണ്ടു ഈ അവസാന പ്രഭാഷണത്തിൽ കഴിഞ്ഞ 12 ാം ആഴ്ചയിൽ നമ്മൾ കണ്ടതെല്ലാം സംഗ്രഹിക്കാൻ ഞാൻ ശ്രമിക്കും അതിനാൽ നിങ്ങൾ ഇതുവരെ കണ്ട കോഴ്സിന്റെ മൊത്തം കവറേജ് ഞങ്ങൾ സംഗ്രഹിക്കുന്നു ആദ്യ ആഴ്ചയിൽ ഞങ്ങൾ ഡിസൈൻ ഓട്ടോമേഷന്റെ ചില അടിസ്ഥാന ആശയങ്ങളും ഒരു ഡിസൈനിനെ എങ്ങനെ പ്രതിനിധീകരിക്കാം എന്നതും ഞങ്ങൾ സ്റ്റാൻഡേർഡ് സെൽ സെമികസ്റ്റം ഫുൾ കസ്റ്റം തുടങ്ങിയ വിവിധ ഡിസൈൻ ശൈലികൾ നോക്കി വിഎൽഎസ്ഐ ഫിസിക്കൽ ഡിസൈനിൽ നിരവധി ഘട്ടങ്ങളുണ്ടെന്ന് ഞങ്ങൾ ആവർത്തിച്ച് സൂചിപ്പിച്ചു അവ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഡിസൈൻ ശൈലിയെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ സ്റ്റാൻഡേർഡ് സെൽ ഡിസൈൻ ശൈലിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും പ്രബലമായത് നിങ്ങളുടെ ടോപ്പോളജി അല്ലെങ്കിൽ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സർക്യൂട്ടുകളുടെ ഘടന വളരെ ക്രമമായതിനാൽ ചില ജോലികൾ വളരെ ലളിതമാകും കൂടാതെ ഫിസിക്കൽ ഓട്ടോമേഷനിൽ പിന്തുടരേണ്ട ആവശ്യമായ വിവിധ ഘട്ടങ്ങളും ഞങ്ങൾ പരിശോധിച്ചു ഇപ്പോൾ ഈ രണ്ടാം ആഴ്ചയിൽ ഞങ്ങൾ VLSI ഫിസിക്കൽ ഡിസൈനിന് ആവശ്യമായ ചില പ്രാരംഭ ഘട്ടങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു സർക്യൂട്ട് പാർട്ടീഷനിംഗ് ഞങ്ങൾ സംസാരിച്ച ആദ്യ ഘട്ടമാണ് അതിനാൽ ഒരു വലിയ ഡിസൈൻ ചെറുതായി വിഭജിക്കുമ്പോൾ ഈ പാർട്ടീഷനുകൾക്കോ ബ്ലോക്കുകൾക്കോ വേണ്ടി താൽക്കാലിക ഫ്ലോർപ്ലാനുകൾ സൃഷ്ടിക്കുമ്പോൾ ഈ ബ്ലോക്കുകൾ എങ്ങനെ സ്ഥാപിക്കാം അതായത് കൃത്യമായ ആകൃതികളും വലുപ്പങ്ങളും പിന്നിന്റെ സ്ഥാനവും ഉറപ്പിച്ചതിന് ശേഷം അതിനാൽ അവ എങ്ങനെ സ്ഥാപിക്കാം ഇതുമായി ബന്ധപ്പെട്ട വിവിധ അൽഗോരിതങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു കൂടാതെ ഏത് അൽഗോരിതം ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ തീരുമാനത്തെ ബാധിക്കാവുന്ന ഈ നിർദ്ദിഷ്ട ഡിസൈൻ ശൈലിയുമായി ബന്ധപ്പെട്ട വ്യതിയാനങ്ങളും ഞങ്ങൾ പരിഗണിച്ചു മൂന്നാം ആഴ്ചയിൽ ഞങ്ങൾ റൂട്ടിംഗ് അൽഗോരിതങ്ങളെക്കുറിച്ച് സംസാരിച്ചു പ്രത്യേകിച്ചും ഞങ്ങൾ ഗ്രിഡ് റൂട്ടിംഗ് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു അതിനാൽ ഞങ്ങൾ ലീയുടെ അൽഗോരിതങ്ങൾLee's algorithms ഹാഡ്ലോക്ക് അൽഗരിതങ്ങൾ വിവിധ ലൈൻ സെർച്ച് അൽഗോരിതങ്ങൾ കൂടാതെ ഗ്ലോബൽ റൂട്ടിംഗ്പ്രോബ്ളത്തെ ക്കുറിച്ചും സംസാരിച്ചു അതിനാൽ നമുക്ക് അതിനെ എങ്ങനെ വ്യത്യസ്ത തരം ഡാറ്റാ സ്ട്രക്ചർസ് ഉപയോഗിച്ചു പ്രതിനിധീകരിക്കാം കൂടാതെ ചില അൽഗരിതങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിച്ചു നാലാമത്തെ ആഴ്ചയിൽ ഞങ്ങൾ വിശദമായ റൂട്ടിംഗ് പ്രോബ്ളവും വിവിധ പരിഹാരങ്ങളും പ്രത്യേകിച്ച് ചാനൽ റൂട്ടിംഗ് അൽഗോരിതം ഞങ്ങൾ ചർച്ച ചെയ്തു തുടർന്ന് ക്ലോക്ക് ഡിസൈനിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നത്തെക്കുറിച്ചും അവിടെ വരുന്ന വിവിധ സമയ പ്രശ്നങ്ങളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ആരംഭിച്ചു 5 ാം ആഴ്ചയിൽ ഞങ്ങൾ ഞങ്ങളുടെ ചർച്ച തുടർന്നു അവിടെ ക്ലോക്ക് നെറ്റ്വർക്കുകൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യാം എച്ച് ട്രീ എക്സ് ട്രീ തുടങ്ങിയ വിവിധ ക്ലോക്ക് റൂട്ടിംഗ് ആർക്കിടെക്ചറുകൾ മാർഗങ്ങളുടെയും മീഡിയനുകളുടെയും രീതി എന്നിവയെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു കൂടാതെ ക്ലോക്ക് ട്രീ ഡിസൈനിന്റെ വിവിധ രീതികൾ ഞങ്ങൾ പരിശോധിച്ചു കൂടാതെ ക്ലോക്കുകളുടെ ചരിവ് കുറയ്ക്കുന്നതിന് ഏത് തരത്തിലുള്ള ഹൈബ്രിഡ് സമീപനങ്ങളാണ് പിന്തുടരുന്നത് കാരണം നിങ്ങൾ ഒരു ക്ലോക്ക് നെറ്റ്വർക്ക് രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനമാണെന്ന് ഞങ്ങൾ പറഞ്ഞു ടെർമിനൽ പോയിന്റുകൾ വരെ കഴിയുന്നത്ര ക്ലോക്ക് സ്ക്യൂ കുറയ്ക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം തീർച്ചയായും പവർ സപ്ലൈ കണക്ഷനുകളും പവറും ഗ്രൌണ്ടും എങ്ങനെ റൂട്ട് ചെയ്യാമെന്നും നിങ്ങൾ നോക്കി പിന്നീട് ഞങ്ങൾ സമയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് നീങ്ങി 6 ാം ആഴ്ചയിൽ ടൈമിംഗ് ക്ലോഷർ പ്രോബ്ളത്തിന്റെ ചില ആമുഖത്തോടെ ഞങ്ങൾ ആരംഭിച്ചു തുടർന്ന് സ്ലാക്ക് വിശകലനത്തിന്റെ സമയ വിശകലനവുമായി ബന്ധപ്പെട്ട പ്രോബ്ളങ്ങളും ക്രിട്ടിക്കൽ പാത്സ് എങ്ങനെ തിരിച്ചറിയാമെന്നും ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം പരിശോധിച്ചു ഒരു ഡിസൈനിലെ ക്രിട്ടിക്കൽ പാത്സ് ആയി കണക്കാക്കുന്ന നെഗറ്റീവ് സ്ലാക്കുകളുള്ള പാത്സ് ഞങ്ങൾ ഓർക്കുന്നു സാധ്യമായ ഇടങ്ങളിൽ അനാവശ്യമായ കംപ്യുറ്റേഷൻസ് നീക്കം ചെയ്യുന്നതിനുള്ള ഫാൾസ് പാത്സ് അവസാനമായി ഞങ്ങൾ ടൈമിംഗ് ഡ്രൈവൺ പ്ലേസ്മെന്റ് ടെക്നിക്കുകൾ പരിശോധിച്ചു ഇത് ഞങ്ങൾ നേരത്തെ സംസാരിച്ച പ്ലേസ്മെന്റ് ടെക്നിക്കുകളുടെ ചില പരിഷ്കരണങ്ങളാണ് ടൈമിംഗ് പ്രോബ്ലംസും അൽഗോരിതങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ ടൈമിംഗ് ഡ്രൈവൺ റൂട്ടിംഗ് ടെക്നിക്കുകളെ കുറിച്ച് സംസാരിച്ചു ഇതിന് ശേഷം വിവിധ ഫിസിക്കൽ സിന്തസിസ് ടെക്നിക്കുകൾphysical synthesis techniques വന്നു ചില സമയ ആവശ്യകതകളോ സമയ തിരുത്തലുകളോ നിറവേറ്റുന്നതിനായി ഞങ്ങളുടെ നെറ്റ്ലിസ്റ്റുകളിൽ ചില മാറ്റങ്ങൾ വരുത്താം അതിനാൽ ഞങ്ങൾ ഗേറ്റ് സൈസിംഗ്gate sizing ബഫറുകൾ അവതരിപ്പിക്കൽ നെറ്റ്ലിസ്റ്റുകൾ പുനഃക്രമീകരിക്കൽ എന്നിവയെക്കുറിച്ച് സംസാരിച്ചു ഒടുവിൽ ഞങ്ങൾ പെർഫോമൻസ് ഡ്രൈവൺ ഡിസൈൻ ഫ്ലോ എന്ന് വിളിക്കുന്നു അതിനാൽ ഡിസൈനിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഈ പ്രകടനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ സമയ സംബന്ധമായ പ്രശ്നങ്ങളോ എങ്ങനെ സംയോജിപ്പിക്കാം തുടർന്ന് ടൈമിംഗ് ഒപ്റ്റിമൈസേഷനുകൾക്കുള്ള വിവിധ സമീപനങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു അതിനാൽ 8 ാം ആഴ്ചയിൽ ഞങ്ങൾ ഇന്റർകണക്റ്റും ലേഔട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരിശോധിച്ചു അതിനാൽ ഈ ഇന്റർകണക്ഷൻ ലൈനുകളുടെ ഡിലെ ഞങ്ങൾ എങ്ങനെ കണക്കാക്കും എൽമോർ ഡിലേ മോഡൽ ലംപ്ഡ് ആർസി മോഡലുകൾ എന്നീ മോഡലുകൾ ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തു ഞങ്ങൾ ഡിസൈൻ റൂൾ പരിശോധനയെക്കുറിച്ചും ചില ഡിസൈൻ നിയമങ്ങളെക്കുറിച്ചും ലാംഡ അടിസ്ഥാനമാക്കിയുള്ള ഡിസൈൻ നിയമങ്ങളെക്കുറിച്ചും സംസാരിച്ചു ഈ നിയമങ്ങൾ രൂപീകരിച്ചുകഴിഞ്ഞാൽ ഈ ഡിസൈൻ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവ ലംഘിച്ചിട്ടുണ്ടോ എന്ന് ഒരു ഉപകരണത്തിന് എങ്ങനെ സ്വയമേവ പരിശോധിക്കാനാകും സാധാരണയായി ഈ ഡിസൈൻ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ലേഔട്ട് കോംപാക്ഷൻ ടെക്നിക്കുകളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു ഇവ ചില സൂക്ഷ്മമായ ക്രമീകരണങ്ങളാണ് ലേഔട്ട് എന്ന് വിളിക്കപ്പെടുന്ന ടേപ്പ്ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ലേഔട്ട് പൂർത്തിയാക്കിയ ശേഷം ചെയ്യുന്നു ഞങ്ങൾ ലേഔട്ട് കോംപാക്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നു ചില വിഷ്വൽ പരിശോധന നടത്താൻ ശ്രമിക്കുന്നു ഡിസൈൻ നിയമങ്ങൾ തൃപ്തികരമാണോ എന്ന് കാണാൻ ശ്രമിക്കുക ചില ഡിസൈൻ റൂൾ ലംഘനങ്ങൾ ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നത് അത്തരം രീതികളോ ടൂളുകളോ ആണ് ഡിസൈനിലേക്ക് അന്തിമമായി നോക്കാനും ചില ലംഘനങ്ങൾ കണ്ടെത്തിയിടത്തെല്ലാം ഡിസൈൻ ക്രമീകരിക്കാനും ഞങ്ങൾ ഉപയോഗിക്കുന്നു ഇപ്പോൾ അടുത്ത ആഴ്ചകളിൽ ഞങ്ങൾ VLSI രൂപകൽപ്പനയുടെ മറ്റൊരു പ്രധാന വശം പരിശോധിച്ചു ഫിസിക്കൽ ഡിസൈൻ മാത്രമല്ല ഇതാണ് പരിശോധനയുടെ വശം അതിനാൽ 9 ആഴ്ചയിൽ ഞങ്ങൾ വിഎൽഎസ്ഐ ടെസ്റ്റിംഗ് പ്രോബ്ലം അവതരിപ്പിച്ചു പ്രത്യേകിച്ച് ഡിജിറ്റൽ സർക്യൂട്ട് ഡിസൈനും ടെസ്റ്റിംഗും ഡിജിറ്റൽ സർക്യൂട്ടുകളുടെ പരിശോധനയിൽ ഈ പ്രക്രിയയിൽ ഫോൾട് മോഡലിംഗ് എത്രത്തോളം പ്രധാനമാണെന്ന് ഞങ്ങൾ സൂചിപ്പിച്ചതായി ഞങ്ങൾ കാണുന്നു ഇക്വിവലെൻസ് ഡോമിനന്സ് തുടങ്ങിയ ആശയങ്ങൾ ഉപയോഗിച്ച് ഫോൾട്കളുടെ എണ്ണം എങ്ങനെ കുറയ്ക്കാമെന്ന് ഞങ്ങൾ സൂചിപ്പിച്ചു തുടർന്ന് ടെസ്റ്റ് എഞ്ചിനീയർമാർക്ക് വളരെ ഉപയോഗപ്രദമായ ചില ഫോൾട്സിമുലേഷൻ അൽഗോരിതങ്ങൾfaults simulation algorithms ഞങ്ങൾ പരിശോധിച്ചു പാരലൽ ഡിഡക്ടിവ് കൺകറന്റ് തുടങ്ങിയ ചില അൽഗോരിതങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു 10 ാം ആഴ്ചയിൽ ഞങ്ങൾ ടെസ്റ്റിംഗിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ചകൾ തുടർന്നു ടെസ്റ്റ് പാറ്റേൺ ജനറേഷന്റെ ചില അടിസ്ഥാന ആശയങ്ങൾ പരിശോധിച്ചു തുടർന്ന് ടെസ്റ്റബിലിറ്റി ടെക്നിക്കുകൾക്കായി പ്രത്യേകമായി സ്കാൻ പാത്ത് രീതി ഞങ്ങൾ രൂപകൽപ്പന ചെയ്തു ബൌണ്ടറി സ്കാൻ സ്റ്റാൻഡേർഡുകളുടെ ഒരു മാനദണ്ഡം ഞങ്ങൾ പരിശോധിച്ചു ഒടുവിൽസെല്ഫ് ടെസ്റ്റ് ടെക്നിക്ക് നിർമ്മിച്ചതാണ് അവിടെ നമുക്ക് സെല്ഫ് ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യാൻ കഴിയും 11 ാം ആഴ്ചയിൽ കുറഞ്ഞ പവർ VLSI ഡിസൈനിന്റെ ചില വശങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു അത് ഇന്നത്തെ VLSI രൂപകൽപ്പനയിലും വളരെ പ്രധാനമാണ് പവർ ഡൈനാമിക് പവർ സ്റ്റാറ്റിക് പവർ ലീക്കേജ് പവർ എന്നിവയുടെ അടിസ്ഥാന ആശയങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു പവർ കുറയ്ക്കുന്നതിനുള്ള ചില പൊതു സാങ്കേതിക വിദ്യകൾ ഞങ്ങൾ പരിശോധിച്ചു വൈദ്യുതി കുറയ്ക്കൽ സാധ്യമാകുന്ന തരത്തിൽ ഗേറ്റ് ലെവലിൽ ചില ഗേറ്റ് ലെവൽ ടെക്നിക്കുകൾ ഞങ്ങൾ എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കി ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ചില ആർക്കിടെക്ചർ ലെവൽ ടെക്നിക്കുകളും ചില അൽഗോരിതം ലെവൽ ടെക്നിക്കുകളും പരിശോധിച്ചു ഉയർന്ന തലത്തിൽ പോലും ലേഔട്ട് ലെവലിൽ വരെ ഞങ്ങൾക്ക് ചില സാങ്കേതിക വിദ്യകൾ പിന്തുടരാൻ കഴിയുമെങ്കിൽഅവസാനം ഞങ്ങളുടെ ഡിസൈൻ സമന്വയിപ്പിക്കുമ്പോൾ വൈദ്യുതി വിനിയോഗത്തിൽ കാര്യമായ ലാഭം നൽകാൻ കഴിയും ഇപ്പോൾ കൂടാതെ ചില അനുബന്ധ സാമഗ്രികൾ നൽകിയിട്ടുണ്ട് ഈ അനുബന്ധ സാമഗ്രികൾ യഥാർത്ഥത്തിൽ ചില വാണിജ്യ CAD ടൂളുകളിൽ ഫിസിക്കൽ ഡിസൈൻ ഓട്ടോമേഷൻ പ്രക്രിയയുടെ ചില പ്രകടനങ്ങൾ നൽകുന്നു അതിനാൽ ഇവിടെ ഞങ്ങൾ കാഡൻസ് പോലെയുള്ള ചില വാണിജ്യ CAD ടൂളുകൾ പ്രത്യേകം പരിശോധിച്ചു ഫിസിക്കൽ ഡിസൈനിൽ പ്രത്യേക ഊന്നൽ നൽകി ബാക്കെൻഡ് ഡിസൈൻ പ്രോസസ്സ് ചെയ്യുന്ന ചില ഡിസൈൻ ഫ്ലോകൾ ഞങ്ങൾ പരിശോധിച്ചു കൂടാതെ സ്റ്റാറ്റിക് ടൈമിംഗ് വിശകലനത്തിനും അനുബന്ധ പ്രശ്നങ്ങൾക്കും പ്രത്യേക ഊന്നൽ നൽകുന്നു വാണിജ്യ CAD ടൂളുകളുടെ ഈ എക്സ്പോഷർ ഈ CAD ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല മറിച്ച് ഈ ടൂളുകൾ എങ്ങനെയിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ആശയമോ ഫ്ളവറോ നിങ്ങൾക്ക് നൽകാനാണ് എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ടൂളുകളിൽ പ്രാവീണ്യം നേടുക ഇതിൽ ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ഈ ആമുഖ ഡെമോൺസ്ട്രേഷൻ പ്രഭാഷണങ്ങൾ ഉപയോഗിക്കാം ഇത്തരത്തിലുള്ള ടൂളുകൾ ലഭ്യമായ ഒരിടത്ത് നിങ്ങൾക്ക് പോകാനും അതിലേക്ക് ആക്സസ് ഉള്ളതും ഡിസൈനുകളും ഈ ടൂളുകളും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കാണാനും കഴിയും അതിനാൽ ഒരിക്കൽ ഞങ്ങൾ ഈ ടൂളുകൾ ഉപയോഗിച്ചുകഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഉപകരണത്തിന്റെ കഴിവിനെക്കുറിച്ച് ഒരു യഥാർത്ഥ അനുഭവം നേടാനാകൂ കാരണം ഈ ടൂളുകളിൽ ഭൂരിഭാഗവും വളരെ സമഗ്രവും വലുതുമാണ് ഇതിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളാൻ സാധ്യമല്ല ഇവ സപ്ലിമെന്ററി മെറ്റീരിയലുകളായിരുന്നു വിഎൽഎസ്ഐ ഡിസൈൻ ഓട്ടോമേഷൻ റഫർ ചെയ്യുന്ന ചില പ്രധാന റഫറൻസുകൾ ഞാൻ ഇവിടെ പരാമർശിച്ചു ഞങ്ങൾ റഫറൻസുകൾ 1 2 എന്നിവയും റഫറൻസ് 4 ഉം ഉപയോഗിച്ചു കൂടാതെ ടെസ്റ്റിംഗിനായി ഞങ്ങൾ പ്രധാനമായും റഫറൻസ് 3 ഉപയോഗിക്കുന്നു എന്നാൽ തീർച്ചയായും ഇക്കാലത്ത് ഇന്റർനെറ്റിൽ മറ്റ് നിരവധി റഫറൻസുകൾ ലഭ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക് ഇന്റർനെറ്റ് നോക്കാം അവിടെ ലഭ്യമായ ധാരാളം മെറ്റീരിയലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഞാൻ ആഗ്രഹിക്കുന്നു പരിമിതമായ ഒരു റഫറൻസ് മാത്രം വ്യക്തമാക്കി നിങ്ങളെ പരിമിതപ്പെടുത്താൻ ഞാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഇതിനപ്പുറം നോക്കരുത് എന്ന് പറഞ്ഞു ഇവ റഫറൻസിനായി മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു കൂടുതൽ സമഗ്രവും കാലികവുമായ മെറ്റീരിയലുകൾ ഉണ്ട് അവ ലഭ്യമാണ് ഇന്റർനെറ്റിൽ ദയവായി വെബ് സന്ദർശിക്കുക നിങ്ങൾക്ക് മനസിലാക്കാനും പഠിക്കാനും താൽപ്പര്യമുള്ള വിഷയങ്ങളിലൂടെ തിരയുക വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള ഉൾക്കാഴ്ച നിങ്ങൾക്ക് ലഭിക്കും ഈ കോഴ്സിന്റെ ലക്ഷ്യം നിങ്ങളെ ഈ വിഷയങ്ങളിൽ വിദഗ്ധരാക്കുക എന്നതല്ല നിലവിലുള്ള ചില വെല്ലുവിളികളെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുക എന്നതായിരുന്നു ഇത് മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് നിങ്ങൾക്ക് ശരിക്കും താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് ഈ വിഷയങ്ങളുടെ ആഴത്തിലേക്ക് പോകുക CAD ടൂളുകൾ ഉപയോഗിക്കാൻ പഠിക്കുക കാരണം നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഡിസൈൻ ഓട്ടോമേഷൻ പ്രായോഗികമായി ഉപയോഗിക്കുന്നത് അവിടെയാണ് ഈ മേഖലകളിൽ നിങ്ങൾക്ക് ഒരു നല്ല എഞ്ചിനീയറോ വിദഗ്ദ്ധനോ ആകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതോടെ ഞങ്ങൾ ഈ കോഴ്സിന്റെ അവസാനത്തിലെത്തി ഈ കോഴ്സിൽ എൻറോൾ ചെയ്തതിന് ഈ കോഴ്സിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു കൂടാതെ ഈ കോഴ്സ് നിങ്ങൾക്ക് അക്കാദമികമായോ തൊഴിൽപരമായോ മറ്റെന്തെങ്കിലും സഹായകരമായിട്ടുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു ലഭ്യമായ ചർച്ചാ ഫോറത്തിൽ ഈ കോഴ്സിനെക്കുറിച്ച് നിങ്ങളുടെ ചില ഫീഡ്ബാക്ക് നൽകാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ശരിക്കും അഭിനന്ദിക്കുന്നു അത് ഞങ്ങൾക്ക് ശരിക്കും സഹായകരമാകും അതുവഴി ഈ കോഴ്സിന്റെ ചില ഭാഗങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് മെച്ചപ്പെടുത്താനോ ഭാവിയിൽ ചില മെച്ചപ്പെടുത്തലുകൾ വരുത്താനോ കഴിയും ഭാവിയിൽ ഈ കോഴ്സ് വീണ്ടും എടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ചില മെച്ചപ്പെടുത്തലുകൾ വരുത്താൻ കഴിയും ഒരിക്കൽ കൂടി വളരെ നന്ദി